സ്വാഗതം ഇന്ന് നമ്മൾ ഡാറ്റാബേസ് ട്രാൻസാക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇത് പ്രോഗ്രാമുകളുടെ ലോജിക്കൽ യൂണിറ്റുകളിൽ ഒന്നാണ് നമുക്ക് ഒരു ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം റെയിൽ ടിക്കറ്റ് വാങ്ങാം മുതലായവ ഇതെല്ലാം ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ ആണ് ഒന്നിലധികം സെഷനുകളിൽ ട്രാൻസാക്ഷൻ എന്ന ആശയം നമ്മൾ പരിരക്ഷിക്കും എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ട്രാൻസാക്ഷൻ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഡാറ്റാബേസിന്റെ ഭാഗമല്ല അത് ഒരു പ്രോഗ്രാമിന്റെ ലോജിക്കൽ യൂണിറ്റാണ് ഇത് ഒരു ഡാറ്റാബേസ് ഫംഗ്ഷന്റെ ലോജിക്കൽ യൂണിറ്റാണ് ട്രാൻസാക്ഷൻ ചില പ്രത്യേക സെറ്റ് പ്രവർത്തനങ്ങൾ സജ്ജമാക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരു ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് പണം കൈമാറുന്നതിന്റെ പൂർണ്ണമായ പ്രവർത്തനത്തെ ഒരു ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം ആ ഭാഗം മാത്രമേ ഡാറ്റാബേസ് പ്രവർത്തനങ്ങളിൽ ഒരു ട്രാൻസാക്ഷൻ ആയി പ്രഖ്യാപിക്കപ്പെടൂ ട്രാൻസാക്ഷനു വളരെ പ്രധാനപ്പെട്ട നാല് ഗുണങ്ങളുണ്ട് ഇവയെ ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നു ഇത് വളരെ പ്രസിദ്ധമായ പദമാണ് ഡാറ്റാബേസുകളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ കേട്ടിരിക്കാം എന്താണ് ആസിഡ് പ്രോപ്പർട്ടീസ് ആദ്യത്തെ പ്രോപ്പർട്ടി A A എന്നത് ആറ്റോമിസിറ്റിയെ സൂചിപ്പിക്കുന്നു ഒരു ട്രാൻസാക്ഷന്റെ ആറ്റോമസിറ്റി പ്രധാനമായും പറയുന്നത് ഒന്നുകിൽ ട്രാൻസാക്ഷൻ പൂർണ്ണമായും സംഭവിച്ചു അല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് അതായത് ഈ ബാങ്കിംഗ് ട്രാൻസാക്ഷൻ സാഹചര്യത്തിൽ ഒന്നുകിൽ പണം Aയുടെ അക്കൌണ്ടിൽ നിന്ന് B അക്കൌണ്ടിലേക്ക് പൂർണമായും കൈമാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടില്ല ഇപ്പോൾ പൂർണ്ണമായും എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് Aയിൽ നിന്ന് B യിലേക്ക് പണം കൈമാറുന്നത് രണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആണ് എയുടെ അക്കൌണ്ടിൽ നിന്ന് പണം ഡെബിറ്റ് ചെയ്യുകയും ബി അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇനിപ്പറയുന്നവ സംഭവിക്കുന്നത് സാധ്യമല്ല ഡെബിറ്റ് ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ രണ്ടും വിജയിക്കാം അല്ലെങ്കിൽ രണ്ടും പരാജയപ്പെടാം അതാണ് ആറ്റോമിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ അടുത്ത പ്രോപ്പർട്ടി C ഭാഗമാണ് അതിനെ കൺസിസ്റ്റൻസി എന്ന് വിളിക്കുന്നു ട്രാൻസാക്ഷൻ ഒരു ഡാറ്റാബേസിന്റെ സ്ഥിരമായ ക്രമം മാറ്റരുത് ട്രാൻസാക്ഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഡാറ്റാബേസ് കൺസിസ്റ്റൻറ് ആയിരുന്നുവെങ്കിൽ ട്രാൻസാക്ഷൻ ശേഷവും അത് സ്ഥിരതയുള്ളതായിരിക്കണം ഉദാഹരണത്തിന് ഈ ബാങ്ക് അക്കൌണ്ട് സാഹചര്യത്തിന് എ യുടെ അക്കൌണ്ടിലെയും ബി അക്കൌണ്ടിലെയും മൊത്തം പണവും സ്ഥിരമാണ് ട്രാൻസാക്ഷന് ശേഷം അത് മാറാൻ പാടില്ല A 1000 രൂപയിൽ ആരംഭിക്കുകയും ബിയിൽ 500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 100 രൂപ കൈമാറുകയും ചെയ്തു A B യിലെ പ്രാരംഭ തുക 1500 ആയിരുന്നു അത് ഇപ്പോഴും 1500 ആയി തുടരണം ഡാറ്റാബേസ് കൺസിസ്റ്റൻറ് അവസ്ഥയിലായിരിക്കണം ഇത് ഒരു ഉദാഹരണം മാത്രമാണ് കൺസിസ്റ്റൻറ് എന്താണെന്ന് നിർവ്വചിക്കാൻ മറ്റ് വഴികളുണ്ട് എന്നാൽ അതാണ് കൺസിസ്റ്റൻറ് എന്ന് വിളിക്കപ്പെടുന്ന പ്രോപ്പർട്ടി അടുത്ത പ്രോപ്പർട്ടി ഐസലേഷൻ ആണ് ഇത് കോഴ്സിന്റെ തുടക്കത്തിൽ നമ്മൾ അൽപ്പം ചർച്ച ചെയ്തിരുന്നു ഇതിനർത്ഥം ഒന്നിലധികം ട്രാൻസാക്ഷൻ ഒരേസമയം നടപ്പിലാക്കിയേക്കാം എന്നാണ് എന്നാൽ അവയിൽ ഓരോന്നിന്റെയും പ്രഭാവം കൈവരിക്കാനാകും മറ്റേതെങ്കിലും ട്രാൻസാക്ഷനു ഇത് വ്യക്തമാണ് ഓരോ ട്രാൻസാക്ഷനും മറ്റൊരു ട്രാൻസാക്ഷൻ ഐസലേഷൻ ആണ് നടക്കുന്നത് ഉദാഹരണത്തിന് A B യിലേക്ക് പണം കൈമാറുന്നുവെന്നും C D ലേക്ക് പണം കൈമാറുന്നുവെന്നും കരുതുക ഇത് പരസ്പരം ഇടപെടരുത് സി ഡിയിലേക്ക് പണം കൈമാറുന്നുണ്ടോ എന്നതിന്റെ ഫലം വിജയിച്ചോ പരാജയപ്പെട്ടോ എയിൽ നിന്ന് ബിയിലേക്ക് പണം കൈമാറുന്നതിൽ ഒരു ഫലവും ഇല്ല അതിനാൽ അതിനെ ഐസലേഷൻ എന്ന് വിളിക്കുന്നു നാലാമത്തെ പ്രോപ്പർട്ടി ഡ്യൂറബിലിറ്റി ആണ് ഡ്യൂറബിലിറ്റി എന്തെന്നാൽ ഒരു ട്രാൻസാക്ഷൻ വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ ഇടപാടിന്റെ ഫലങ്ങൾ ഡ്യൂറബിലിറ്റിയുള്ളതായിരിക്കണം അല്ലെങ്കിൽ ശാശ്വതമായിരിക്കണം ഈ പണം കൈമാറ്റം വിജയകരമായി സംഭവിച്ചതിന് ശേഷം ഡാറ്റാബേസ് തകരാറിലായാലും അല്ലെങ്കിൽ മറ്റ് ട്രാൻസാക്ഷനുകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ പണം കൈമാറ്റം ശാശ്വതമായി കണക്കാക്കപ്പെടുന്നു എയുടെ അക്കൌണ്ട് ഡെബിറ്റ് ചെയ്യുകയും ബി യുടെ ക്രെഡിറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റാബേസ് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ പുതിയ സാഹചര്യം എയുടെ പണം ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെന്നും ബി യുടെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നും പ്രതിഫലിപ്പിക്കണം ഇതാണ് ഈട് ഒരിക്കൽ അത് സംഭവിച്ചാൽ അത് നിലനിൽക്കുകയും അത് ശാശ്വതമാവുകയും ചെയ്യും ഇവയാണ് ട്രാൻസാക്ഷന്റെ നാല് പ്രധാന പ്രോപ്പർട്ടീസ് ഇവയെ ഒന്നിച്ച് ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നു ആസിഡ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ട്രാൻസാക്ഷനെ കുറച്ചുകൂടി നിർവ്വചിക്കാൻ ഇത് ഒരു പ്രോഗ്രാമിന്റെ ലോജിക്കൽ യൂണിറ്റാണ് ട്രാൻസാക്ഷന്റെ അടിസ്ഥാന രണ്ട് പ്രവർത്തനങ്ങൾ വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു ഇപ്പോൾ ട്രാൻസാക്ഷൻ വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്നത് എന്താണ് ഒരു ട്രാൻസാക്ഷൻ വായിക്കാനോ എഴുതാനോ പറയപ്പെടുന്നു ഇതിനെ നേംഡ് ഐറ്റമ് എന്നു പറയുന്നു എന്താണ് നേംഡ് ഐറ്റമ് നേംഡ് ഐറ്റമ് എന്നത് ഡാറ്റയുടെ ഏതെങ്കിലും ലോജിക്കൽ യൂണിറ്റ് ആണ് ഉദാഹരണത്തിന് പ്രത്യേക അക്കൌണ്ട് നമ്പറുള്ള ഒരു ബാങ്ക് അക്കൌണ്ട് അക്കൌണ്ട് ഒരു നേംഡ് ഐറ്റമായിരിക്കാം മറ്റൊരു ഉദാഹരണം ഒരു ടിക്കറ്റ് സംവിധാനത്തിലെ ഒരു സമ്പൂർണ്ണ ടിക്കറ്റ് ആണ് അത് ഒരു നേംഡ് ഐറ്റമായിരിക്കാം നമ്മൾ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ ആരംഭിക്കുമ്പോൾ ഡാറ്റാബേസ് റിലേഷണൽ മോഡിലാണോ അതോ മറ്റേതെങ്കിലും മോഡിലാണോ അതോ റിലേഷൻ മോഡലിലാണോ എന്ന് നമ്മൾ മറക്കും ഡാറ്റാബേസിൽ ചില പേരുള്ള ഇനങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് നമ്മൾ കാണും പേരുള്ള ഇനം ഡാറ്റയുടെ ഒരു ലോജിക്കൽ യൂണിറ്റാണ് കൂടാതെ കവർ ചെയ്യുന്ന പേരുള്ള ഇനങ്ങൾ ഉണ്ടായിരിക്കാം പേരിട്ടിരിക്കുന്ന ഇനം പരസ്പരം ഉപവിഭാഗങ്ങളായിരിക്കാം മുതലായവ പക്ഷേ നമ്മൾ ഇവിടെ പരിഗണിക്കില്ല നമ്മൾ പഠിക്കുന്ന ട്രാൻസാക്ഷൻ മോഡലിനായി നേംഡ് ഐറ്റമ് ഉണ്ടെന്ന് നമ്മൾ പറയും ഡാറ്റാബേസ് കേവലം നേംഡ് ഐറ്റങ്ങളുടെ ഒരു ശേഖരം മാത്രമാണ് നേംഡ് ഐറ്റമ് x ആണെങ്കിൽ രണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ട് ഒന്നുകിൽ അത് x നെ വായിക്കുന്നു അല്ലെങ്കിൽ x ലേക് എഴുതുന്നു അതാണ് ഈ നേംഡ് ഐറ്റത്തിന്റെ ഗ്രാനുലാരിറ്റി ഒരു ബ്ലോക്ക് ഒരു പേജ് ഒരു മുഴുവൻ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒരു ടേബിൾ മുതലായവ ആകാം നേംഡ് ഐറ്റമ് നിങ്ങൾ എങ്ങനെ നിർവചിക്കുന്നു എന്നതിൽ നിന്ന് ട്രാൻസാക്ഷൻ സ്വതന്ത്രമാണ് ഒരു നേംഡ് ഐറ്റമ് നിർവചിച്ചിരിക്കുന്ന ഗ്രാനുലാരിറ്റിയിൽ നിന്ന് ഇത് അടിസ്ഥാനപരമായി സ്വതന്ത്രമാണ് റീഡ് റൈററ് read write ആണ് രണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങൾ x ഒരു നേംഡ് ഐററത്തിന്റെ വേരിയബിളിനെ സൂചിപ്പിക്കുന്നു റീഡ് റൈററ് കൂടാതെ മൂന്ന് അടിസ്ഥാന വൈരുദ്ധ്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ആദ്യത്തേത് റീഡ് ആഫ്റ്റർ റൈററ് രണ്ടാമത്തേത് റൈററ് ആഫ്റ്റർ റീഡ് മൂന്നാമത്തേത് റൈററ് ആഫ്റ്റർ റൈററ് ഇത് റീഡ് ആഫ്റ്റർ റൈററ് ആണ് റീഡ് ആഫ്റ്റർ റൈററ് ചെയ്യുമ്പോൾ വൈരുദ്ധ്യം സംഭവിക്കുന്നത് വായിക്കുന്ന രണ്ടോ അതിലധികമോ ട്രാൻസാക്ഷൻ ഉണ്ട് ആദ്യം വായിക്കുകയും പിന്നീട് എഴുതുകയും ചെയ്യുന്നു ആദ്യ ട്രാൻസാക്ഷൻ വായിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എഴുതുന്നതിനുമുമ്പ് ആ മൂല്യം വായിക്കണം ഇത് റീഡ് ആഫ്റ്റർ റൈററ് വൈരുദ്ധ്യം ആണ് അതുപോലെ റൈററ് ആഫ്റ്റർ റീഡ് വൈരുദ്ധ്യം ഉണ്ട് നമ്മൾ പിന്നീട് ഈ വൈരുദ്ധ്യത്തിലൂടെ കൂടുതൽ വിശദമായി കടന്നുപോകും എന്നാൽ അടിസ്ഥാനപരമായി ഈ മൂന്ന് പൊരുത്തക്കേടുകൾ ഏത് പ്രവർത്തനങ്ങളാണ് വൈരുദ്ധ്യമുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിറീഡ് ആഫ്റ്റർ റീഡ് വൈരുദ്ധ്യം ഉണ്ടാകില്ല കാരണം ഒരേ ഇനം x വായിക്കുന്ന രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അവർ ഏത് ക്രമത്തിലാണ് വായിക്കുന്നത് എന്നത് പ്രശ്നമല്ല രണ്ടുപേരും ഒരേ മൂല്യം വായിക്കുന്നു അവയൊന്നും ഇനത്തിന്റെ മൂല്യം മാറ്റില്ല അവർ ഏത് ക്രമത്തിലാണ് വായിക്കുന്നത് എന്നത് പ്രശ്നമല്ല അത് ഒരു വൈരുദ്ധ്യമല്ല ആദ്യ ഇടപാടുകളും രണ്ടാമത്തെ ഇടപാടുകളും ഒരേ ഇനം വായിക്കുകയാണെങ്കിൽ അത് ഒരു വൈരുദ്ധ്യമല്ല റൈററ് ആഫ്റ്റർ റീഡ് റീഡ് ആഫ്റ്റർ റൈററ് റൈററ് ആഫ്റ്റർ റൈററ് അതിൽ ഒരു റൈററ് പ്രവർത്തനം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായേക്കാം കാരണം വായനയും എഴുത്തും ശരിയായ ക്രമത്തിൽ പോകണം അല്ലാത്തപക്ഷം വായനാ മൂല്യമോ രേഖാമൂലമോ തെറ്റായിരിക്കാം നമ്മൾ ഇപ്പോൾ കൂടുതൽ വിശദമായി ഇത് പരിശോധിക്കും ഇത് അടിസ്ഥാനപരമായി വൈരുദ്ധ്യങ്ങൾ എന്താണെന്നതിന്റെ ആശയമാണ് പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിന് മുമ്പ് ഈ ആസിഡ് ഗുണങ്ങൾ മനസിലാക്കാൻ ട്രാൻസാക്ഷന്റെ ഒരു ഉദാഹരണം നമുക്ക് പൂർത്തിയാക്കാം Aയുടെ അക്കൌണ്ടിൽ നിന്ന് Bയുടെ അക്കൌണ്ടിലേക്ക് പണം കൈമാറേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുക ഇതാണ് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ വസ്തുതകൾ എന്നതാണ് പ്രധാന കാര്യം ഈ ട്രാൻസാക്ഷനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും എന്നതാണ് എയുടെ അക്കൌണ്ടിൽ എത്ര തുക ആണെങ്കിലും വായിക്കും റീഡ് ആണ് എന്ന ആദ്യ പ്രവർത്തനം A യുടെ അക്കൌണ്ട് 100 ഡെബിറ്റ് ചെയ്യുമെന്ന് കരുതുക അല്ലെങ്കിൽ എന്നത് A യുടെ അക്കൌണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യപ്പെടുന്നു അതായത് A യുടെ പുതിയ മൂല്യം ഇതാണ് ഇപ്പോൾ ഈ പുതിയ മൂല്യം എഴുതേണ്ടതുണ്ട് ഇതാണ് റൈററ് അതുപോലെ തന്നെ ഇത് ബി യുടെ അക്കൌണ്ട് വായിക്കും റീഡ് ബി അത് 100 എന്ന തുക ഉപയോഗിച്ച് വർദ്ധിപ്പിക്കും തുടർന്ന് ഇത് ബിക്ക് എഴുതുക റൈററ് ബി ഇതാണ് ട്രാൻസാക്ഷന്റെ പൂർണ്ണ വിവരണം ഇപ്പോൾ നമ്മൾ ആറ്റോമികതയുടെ ആശയം എന്താണ് കാണും ഒന്നാമത്തെ കാര്യം നമ്മൾ എങ്ങനെയാണ് ആറ്റമിസിറ്റി നിർവ്വചിക്കുക വളരെ ലളിതമായി ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കണം അല്ലെങ്കിൽ ഇത് സംഭവിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കില്ല ആറ്റമിസിറ്റി എന്നത് ഒന്നുകിൽ A യുടെ അക്കൌണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടുകയും B യുടെ അക്കൌണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അവയൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് അവയിലൊന്ന് മാത്രം സംഭവിക്കാൻ കഴിയില്ല അതാണ് ആറ്റമിസിറ്റി അല്ലാത്തപക്ഷം പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കാണും ബാങ്കിന് ഒന്നുകിൽ അനിശ്ചിതകാലത്തേക്ക് പണം എടുത്തുകളയുകയോ അല്ലെങ്കിൽ അനിശ്ചിതമായി പണം സൃഷ്ടിക്കുകയോ ചെയ്യാം രണ്ടിലും ഈ പ്രശ്നം സംഭവിക്കുന്നു ആ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ആറ്റോമിസിറ്റി ഉറപ്പാക്കുന്നു അതാണ് ആറ്റമിറ്റിയെക്കുറിച്ചുള്ള ഭാഗം കൺസിസ്റ്റൻസി എന്നത് സെമാന്റിക് ആണ് എയിൽ നിന്ന് 100 രൂപ എടുക്കുകയും അതേ 100 രൂപ ബിയിൽ നിക്ഷേപിക്കുകയും ചെയ്താൽ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷവും എ പ്ലസ് ബി യുടെ തുക സ്ഥിരമായി നിലനിൽക്കും എയിൽ നിന്ന് 100 രൂപ എടുക്കുകയും ബിക്ക് 90 രൂപ അല്ലെങ്കിൽ 110 രൂപ മാത്രം ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്താൽ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടേക്കാം കൺസിസ്റ്റൻസി നിർവ്വചിക്കേണ്ടതുണ്ട് എന്താണ് കൺസിസ്റ്റൻസി മാനദണ്ഡം ഇവിടെ എയുടെയും ബി യുടെയും അക്കൌണ്ടിലെ പണത്തിന്റെ ആകെ തുക സ്ഥിരമാണ് എന്നതാണ് മാനദണ്ഡം അത് പരിപാലിക്കപ്പെടുന്നു അതാണ് സ്ഥിരതയുടെ ഭാഗം അടുത്തത് ഐസലേഷൻ മറ്റൊരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ A വായിക്കുന്നു അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ B വായിക്കുന്നു ഇത് ഐസലേഷനിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ആശയമാണ് A അല്ലെങ്കിൽ B വായിക്കുന്ന മറ്റൊരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ ട്രാൻസാക്ഷൻ അവഗണിക്കണം ഒന്നുകിൽ ഈ രണ്ട് പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അത് മൂല്യം വായിക്കണം അല്ലെങ്കിൽ ഈ രണ്ട് പ്രവർത്തനങ്ങളും നടന്നതിന് ശേഷം അത് മൂല്യം വായിക്കണം അതാണ് ഐസലേഷൻ ഉറപ്പാക്കാനുള്ള മാർഗ്ഗം എന്നാൽ ഐസലേഷന്റെ അർത്ഥം എന്തെന്നാൽ ഇവിടെ മറ്റൊരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്ന് അറിയേണ്ടതില്ല എന്നതാണ് ഈ ട്രാൻസാക്ഷൻ ആണോ എന്നത് പ്രശ്നമല്ല ഈ ട്രാൻസാക്ഷൻ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഏത് ഘട്ടത്തിലാണ് അതാണ് ഐസലേഷൻ പ്രോപ്പർട്ടി അവസാനത്തേത് ഡ്യൂറബിലിറ്റിയേക്കുറിച്ചാണ് B യുടെ അക്കൌണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും B ക്ക് അതോറിറ്റി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റാബേസ് തകരാറിലാകുകയാണെങ്കിൽ അതിനുശേഷം ഡാറ്റാബേസ് വീണ്ടെടുക്കും പക്ഷേ B യുടെ പണം കുറവായിരിക്കരുത് ട്രാൻസാക്ഷൻ പൂർത്തിയാക്കിയ ശേഷം പുതിയ ബാലൻസ് ബി യുടെ അക്കൌണ്ടിൽ പ്രതിഫലിക്കുകയും വേണം ട്രാൻസാക്ഷൻ പൂർത്തിയായ ശേഷം സാധാരണയായി ഒരു സിഗ്നൽ നൽകി പൊതുവെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്റ്റേറ്റുണ്ട് ട്രാൻസാക്ഷൻ വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ അത് ഡ്യൂറബിലിറ്റിയുള്ളതായിരിക്കണം അത് വിപരീതമാക്കരുത് അതാണ് ട്രാൻസാക്ഷന്റെ കാര്യം ട്രാൻസാക്ഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആദ്യ പ്രശ്നത്തെ ലാസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് വിളിക്കുന്നു രണ്ട് ട്രാൻസാക്ഷനുകൾ ഉണ്ടെന്നും രണ്ടും ഒരേ ഡാറ്റ ഇനത്തിലേക്ക് എഴുതുകയാണെന്നും കരുതുക എന്തായിരിക്കാം ആദ്യ ട്രാൻസാക്ഷന്റെ അപ്ഡേറ്റ് രണ്ടാമത്തെ ട്രാൻസാക്ഷന്റെ അപ്ഡേറ്റ് വഴി അമിതമായി എഴുതപ്പെട്ടേക്കാം അടിസ്ഥാനപരമായി ആദ്യത്തെ ട്രാൻസാക്ഷൻ നടത്തിയ അപ്ഡേറ്റ് നഷ്ടപ്പെട്ടു കാരണം ഇത് മറ്റേതെങ്കിലും ട്രാൻസാക്ഷനിലൂടെയാണ് മുന്നോട്ട് പോയത് അതാണ് അവസാന അപ്ഡേറ്റ് പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം താൽക്കാലിക അപ്ഡേറ്റാണ് ഇതിനെ ചിലപ്പോൾ ഡേർട്ടി റീഡ് എന്നും വിളിക്കുന്നു ഒരു പ്രത്യേക ഡാറ്റ ഇനത്തിലേക്ക് ഒരു ട്രാൻസാക്ഷൻ എഴുതുന്നുവെന്ന് കരുതുക മുമ്പത്തെ ഉദാഹരണത്തിൽ ട്രാൻസാക്ഷൻ പുതിയ മൂല്യം എയിലേക്ക് എഴുതുകയും തുടർന്ന് ബി അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പരാജയപ്പെടുകയും ചെയ്യുന്നു നമ്മൾ പറയുന്നതുപോലെ A യഥാർത്ഥ തുകയിലേക്ക് തിരികെ വരണമെന്ന് ആറ്റോമിസിറ്റി ഉറപ്പ് നൽകണം ഈ റോൾബാക്ക് സംഭവിക്കുന്നതിന് മുമ്പ് എ യുടെ മൂല്യം വായിക്കുന്ന മറ്റൊരു ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് കരുതുക അത് ഡേർട്ടി റീഡ് എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് അതിനെ ഡേർട്ടി റീഡ് എന്ന് വിളിക്കുന്നത് കാരണം വായിച്ച മൂല്യം ഡേർട്ടി പുതിയ മൂല്യമാണ് കാരണം എയുടെ മൂല്യം പുതുക്കിയ ട്രാൻസാക്ഷൻ ഇതുവരെ ചെയ്തിട്ടില്ല അതിനാൽ പ്രതിബദ്ധത എന്ന ആശയം ഉണ്ട് അതിൻറെ അർത്ഥം അത് വിജയകരമായി പൂർത്തിയാക്കുന്നു അത് ഇതുവരെ ശരിയായി പൂർത്തിയാക്കിയിട്ടില്ല എന്നാൽ മറ്റൊരു ട്രാൻസാക്ഷൻ വന്നു ആ മൂല്യം വായിച്ചു ആദ്യ കേസിലെ അപ്ഡേറ്റ് താൽക്കാലികമാണ് കാരണം ഈ ട്രാൻസാക്ഷൻ ശരിയാണെന്ന് ട്രാൻസാക്ഷൻ ആണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് പൂർണ്ണമായും കടന്നുപോയിട്ടില്ല ഇത് ഒരു താൽക്കാലിക അപ്ഡേറ്റാണ് പക്ഷേ മറ്റൊരു ട്രാൻസാക്ഷൻ ഇത് വായിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ താൽക്കാലിക അപ്ഡേറ്റ് അല്ലെങ്കിൽ ഡേർട്ടി റീഡ് പ്രശ്നം എന്ന് വിളിക്കുന്നത് മൂന്നാമത്തെ പ്രശ്നത്തെ ഇൻകറക്റ്റ് സമ്മറി എന്ന് വിളിക്കുന്നു ഇൻകറക്റ്റ് സമ്മറി പ്രശ്നം ട്രാൻസാക്ഷനുകളിലൊന്ന് എല്ലാ ബാങ്ക് അക്കൌണ്ടുകളിലെയും മൊത്തത്തിലുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പ്രവർത്തനം കണ്ടെത്താൻ ശ്രമിക്കുന്നുവെന്ന് കരുതുക സംഭവിച്ചേക്കാവുന്നത് അത് A വായിക്കുകയും തുടർന്ന് A മാറ്റുകയും ചെയ്യുന്നു എന്നതാണ് മാറിയതിനാൽ ആദ്യ ട്രാൻസാക്ഷനിൽ സ്ഥിതിവിവരക്കണക്കുകൾ അല്ലെങ്കിൽ ആകെ തുക പൂർണ്ണമായും തെറ്റാണെന്നത് നൽകും പക്ഷേ അത് കാണിക്കുന്ന മൂല്യം തെറ്റായിരിക്കും ഉദാഹരണത്തിന് എ ബി മുതലായ ചില അക്കൌണ്ടുകൾ അല്ലെങ്കിൽ ശരാശരി മുതലായവ തെറ്റായിരിക്കും കാരണം അത് തെറ്റായി എന്തെങ്കിലും വായിച്ചിട്ട് ഉണ്ടാവാം അത് തെറ്റായ സംഗ്രഹമാണ് സംഗ്രഹം അടിസ്ഥാനപരമായി നൽകുന്നത് അഗ്രഗേഷൻ മുതലായവ തെറ്റാണെന്ന് ഇൻകറക്റ്റ് സമ്മറി നൽകുന്നു ഡേർട്ടി റീഡ് പ്രശ്നത്തിന്റെ താൽക്കാലിക അപ്ഡേറ്റ് കാരണം ഇത് സംഭവിക്കുന്നു എന്നാൽ ഡാറ്റാബേസ് പ്രാക്ടീഷണർമാർ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ മുമ്പ് നേരിട്ട മറ്റൊരു സാധാരണ പ്രശ്നമാണിത് ചോദ്യം എന്തെന്നാൽ എന്തുകൊണ്ടാണ് ഇടപാടുകൾ പരാജയപ്പെടുന്നത് പരാജയങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ട്രാൻസാക്ഷൻ പരാജയപ്പെടുന്നത് മനസ്സിലാക്കാനുള്ള ആദ്യ വളരെ ലളിതമായ മാർഗ്ഗം ഒരു സിസ്റ്റം ക്രാഷ് ഉണ്ട് എന്നതാണ് ഒന്നുകിൽ ഡാറ്റാബേസ് മെഷീന്റെ പവർ പോയി അല്ലെങ്കിൽ ചില എറർ ചില ഒഴിവാക്കലുകൾ സംഭവിക്കുന്നു മുതലായവ അതുകാരണം മെമ്മറി നഷ്ടപ്പെടും അപ്പോൾ ഒരു സിസ്റ്റം എറർ ഉണ്ട് എങ്ങിനെയാണ് പിഴവ് സംഭവിക്കുന്നത് Aയ്ക്ക് 1000 രൂപയുണ്ടെന്നും അത് 2000 രൂപ കൈമാറാൻ ശ്രമിക്കുന്നുവെന്നും കരുതുക അത് ശരിയാകുമോ അത് ഒരു ലോജിക്കൽ എററാണ് അതിൽ തെറ്റൊന്നുമില്ലെങ്കിലും ട്രാൻസാക്ഷനിൽ നിന്നുള്ള വായന എഴുത്ത് പ്രവർത്തനങ്ങൾ എന്ന അർത്ഥത്തിൽ അതൊരു എററാണ് ഇടപാട് ഒരു തരത്തിലും വിജയിക്കില്ല കാരണം 1000 രൂപയിൽ നിന്ന് 2000 രൂപ കൈമാറാൻ ഒരു വഴിയുമില്ല കൂടാതെ 0 വഴി വിഭജിക്കൽ പോലുള്ള മറ്റ് പ്രോഗ്രാം എററുകളാകാം പക്ഷേ അത് ഒരു സിസ്റ്റം എററാണ് 0 കൊണ്ട് ഈ വിഭജനത്തെ ഒരു എക്സപ്ഷൻ എന്ന് വിളിക്കാം മറ്റ് പല തരത്തിലുള്ള എക്സപ്ഷനുകൾ ഉണ്ടായേക്കാം ഇവ രണ്ടും മിക്കവാറും ഒന്നുതന്നെയാണ് സിസ്റ്റം എറർ അല്ലെങ്കിൽ ഒഴിവാക്കൽ അപ്പോൾ നാലാമത്തേത് ഒത്തൊരുമയുണ്ട് എന്നതാണ് ഞങ്ങൾ സമഗ്രതയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം നിർവ്വചിക്കും സംഭവിക്കുന്ന എറർ ഒരേസമയം നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനാലും ഇത് സംഭവിക്കുന്നതിനാലും ഒരു ഡെഡ് ലോക്ക് എന്ന് വിളിക്കപ്പെടുന്ന കാരണം ഡെഡ്ലോക്കിന്റെ ഈ നിർവചനം നമ്മൾ കാണും കൺകറൻസിയുടെ നിർവചനം നമുക്ക് പിന്നീട് കൂടുതൽ വിശദമായി കാണാം പക്ഷേ ആശയം ഇതാണ് ട്രാൻസാക്ഷൻ 2 വഴി അപ്ഡേറ്റ് ചെയ്ത B വായിക്കാൻ ഒരാൾ അഭ്യർത്ഥിച്ചു ട്രാൻസാക്ഷൻ വഴി എഴുതിയ ചില ഡാറ്റ ഇനം വായിക്കേണ്ടതുണ്ട് വളരെ ലളിതമായി ട്രാൻസാക്ഷൻ 1 ട്രാൻസാക്ഷൻ 2 നെ ആശ്രയിക്കുന്നു ട്രാൻസാക്ഷൻ1 ട്രാൻസാക്ഷൻ 2 നെ ആശ്രയിച്ചിരിക്കുന്നു അതാണ് ഡെഡ് ലോക്ക് മറ്റേത് പൂർത്തിയാക്കാതെ ആർക്കും മുന്നോട്ട് പോകാനാകില്ല എന്നാൽ ആർക്കും പൂർണ്ണമാക്കാനും കഴിയില്ല സിസ്റ്റം നിർത്തുന്നു ട്രാൻസാക്ഷനുകളൊന്നും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയില്ല അത് ഒരു ഡെഡ് ലോക്ക് ആണ് നമ്മൾ ഇത് പിന്നീട് കൂടുതൽ വിശദമായി നിർവ്വചിക്കും ചിലപ്പോൾ സിസ്റ്റം ക്രാഷ് മെമ്മറി പരാജയം ആകാം ഒരു ഡിസ്ക് ക്രാഷ് ഉണ്ടാകാം അല്ലെങ്കിൽ മുഴുവൻ ഡാറ്റാബേസും തകരാo അത് ഈ കാര്യത്തെക്കുറിച്ചാണ് ഈ ഡ്യൂറബിലിറ്റി പ്രശ്നം ശ്രദ്ധിക്കണം ഡാറ്റാബേസ് തകരാറിലായാൽ ദൈർഘ്യം തടസ്സപ്പെടും ഇടപാടിന് പ്രശ്നമുണ്ടാകാം തീയോ മോഷണമോ പോലുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ടാകാം ഇത് എന്തായിരുന്നാലും ഇടപാട് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ പ്രധാന കാര്യം അത് ഡിസ്ക് ക്രാഷ് അല്ലെങ്കിൽ സിസ്റ്റം ക്രാഷ് ആണ് ഇവ രണ്ടും നമ്മൾ പിന്നീട് കൂടുതൽ പഠിക്കും